കോഴ്സിന്റെ ഈ ആഴ്ചയിലെ അഞ്ചാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗത്തിൽ ഒക്കുലിസിക്സ് അഥവാ കണ്ണുകളുടെ ഭാഷ എന്തെന്നും വിവിധ തരം നോട്ടങ്ങൾ എന്തൊക്കെ എന്നും വിശദമായി നാം പഠിച്ചു അടുത്ത പാഠ്യവിഷയം വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരത്തിലും മറ്റ് ഔപചാരിക സന്ദർഭങ്ങളിലും ഉദാഹരണമായി ക്ലാസ്സ് റൂം പ്രബന്ധ അവതരണം അഭിമുഖം തുടങ്ങിയവയിൽ നേത്രബന്ധത്തിനുള്ള പ്രാധാന്യം ആണ് ഏതൊരു ആശയവിനിമയത്തിലും നേത്രബന്ധത്തിന് അനിഷേധ്യമായ സ്ഥാനം ഉണ്ട് ആശയവിനിമയം നടത്തുമ്പോൾ നേത്രബന്ധം പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആശയ പ്രകാശനം മികവുറ്റതാക്കാൻ അത് സഹായിക്കും പ്രഭാഷകയ്ക് തന്റെ ആശയങ്ങൾ ശ്രോതാക്കളെ വ്യക്തമായി ധരിപ്പിക്കാനും അതേ സമയം അവരുടെ പ്രതികരണം എന്തെന്നറിയാനും നേത്രബന്ധം സഹായിക്കുന്നു പ്രഭാഷകയുടെയും ശ്രോതാവിന്റെയും ശ്രദ്ധ ഒരേ ദിശയിലാണെങ്കിൽ രണ്ട് പേരും ഒരേ കാര്യത്തിൽ തന്നെ ശ്രദ്ധയൂന്നാൻ അത് ഉപകരിക്കുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിലും ഒരു ചെറിയ സദസിന് മുമ്പിൽ സംസാരിക്കുമ്പോഴും നേത്രബന്ധം പുലർത്തുന്നത് വളരെ ഫലപ്രദമാണ് ഇത് ചെറിയ കുട്ടികളിൽ ഭാഷാ നൈപുണ്യം വളർത്തുന്നതിനും സാമൂഹിക വിജ്ഞാനം വികസിപ്പിക്കുന്നതിനും ഉതകുന്നു കോഴ്സിന്റെ കഴിഞ്ഞ ഭാഗത്തു നാം ന്യൂറോ ലിംഗയ്സ്റ്റിക് പ്രോഗ്രാമിങ് എന്തെന്ന് പഠിച്ചു ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് നമ്മുട മനസിലുളവാകുന്ന ചിന്തകളോട് അനുബന്ധിച്ചുള്ള നേത്ര ചലനങ്ങൾ ഒന്നും തന്നെ യാദൃശ്ചികമല്ല എന്നാണ് മറിച് അവ നമ്മുടെ ചിന്തകളുടെ അന്തസത്തയുമായും മാനസിക വ്യാപാരങ്ങളുടെ ആകെത്തുകയായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നേത്രബന്ധം പുലർത്തുന്നതിന്റെ നിലവാരവും അതിനോടുള്ള വൈമുഖ്യവും ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രപരവും നാഡീവ്യൂഹവ്യവസ്ഥാപരവുമായ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വിവിധ വൈദ്യശാസ്ത്ര ജേര്ണലുകളിൽ നേത്രബന്ധത്തെക്കുറിച് പരാമര്ശിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെത്തുടർന്നുള്ള കണ്ടെത്തലുകൾ മേല്പറഞ്ഞ കാര്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നു വൈദ്യശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്നവരുടെ കണ്ടെത്തൽ പ്രകാരം വിഷാദരോഗവും അമിത ഉത്കണ്ഠയും മറ്റ് മാനസിക പ്രശ്നങ്ങളും ഉള്ളവർ നല്ല രീതിയിലുള്ള നേത്രബന്ധം പുലർത്താൻ നന്നേ ബുദ്ധിമുട്ടുന്നു ഏകാഗ്രതക്കുറവ് ഉള്ളവരും അമിതപ്രസരിപ് ഉള്ളവരും എല്ലായ്പോഴും അവരുടെ പരിസരങ്ങളെ അതിവേഗത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ചികിത്സകനും ചികിത്സാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ ശരിയായ നേത്രബന്ധം മികച്ച രോഗനിർണയത്തിന് സഹായകമാണ് ക്ലാസ്സ്മുറിയിലെ അധ്യാപികയും വിദ്യാർഥികളും തമ്മിലുള്ള ആശയവിനിമയത്തിലും മറ്റു ഔപചാരിക സന്ദർഭങ്ങളിലും നേത്രബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട് അധ്യാപകർ എന്ന നിലയിലുള്ള നമ്മുടെ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നും നമുക്കറിയാം അധ്യാപകർക്കു ക്ലാസ്സ് റൂമിൽ എവിടെ വേണമെങ്കിലും കണ്ണോടിക്കാം നിരന്തരം വിദ്യാർത്ഥികളുമായി നേത്രബന്ധം പുലർത്തുന്ന അധ്യാപകരിൽ നിന്നും കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു എന്നാൽ തങ്ങളുടെ കുറിപ്പുകൾ നോക്കി വായിക്കുകയും നിശബ്ദമായി ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയും വിദ്യാർത്ഥികളുമായി തീരെ നേത്രബന്ധം പുലർത്തിരിക്കുകയും ചെയ്യാത്ത അധ്യാപകരുടെ അധ്യാപനം തന്നെ വിരസമായിതീരുന്നു മനസോവും പാറ്റേഴ്സണും എന്ന് വിളിക്കുന്നു ക്ലാസ്സ് മുറിയിൽ കുട്ടികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ അവർ പലപ്പോഴും ഈ മാർഗം ഉപയോഗിക്കുന്നു അച്ചടക്കമില്ലാത്ത കുട്ടികളെ നിയന്ത്രിക്കാൻ അവരോട് സാമീപ്യം പുലർത്തുന്നതിലൂടെയും ദൈർഘ്യം കുറഞ്ഞ നേത്രബന്ധം പുലർത്തുന്നതിലൂടെയും സാധിക്കും അങ്ങനെ അനാവശ്യമായ ശത്രുത വിദ്യാർത്ഥിയിൽ ഉളവാക്കുന്നത് തടയാൻ കഴിയും എന്നാൽ ദീർഘനേരം ഒരാളുമായി ഇടമുറിയാതെ നേത്രബന്ധം പുലർത്തുന്നത് ആ വ്യക്തിയിൽ ശത്രുതയുളവാക്കാനും അയാളെ പ്രതിരോധത്തിലാകുവാനുമേ സഹായിക്കു സമിതി തല ചർച്ചകളിലും പൊതുചർച്ചകളിലും നേത്രബന്ധത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് അത്തരം അവസരങ്ങളിൽ എല്ലാം തന്നെ പങ്കെടുക്കുന്നവർ തമ്മിൽ സുഗമമായി നേത്രബന്ധം പുലർത്താൻ കഴിയുന്ന വിധത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തമ്മിലും പങ്കെടുക്കുന്നവരും സദസ്യരും തമ്മിലും മികച്ച നേത്രബന്ധം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സദസ്യർക്കു മുമ്പിലായി അർദ്ധവൃത്താകൃതിയിൽ ഇരിക്കുന്നു പ്രഭാഷകരുടെ പേരുകൾ അവർക്ക് മുന്നിലായി എഴുതി പ്രദർശിപ്പിക്കുകയും നല്ല പ്രകാശ ക്രമീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഉത്തമമായ ഒരു മാതൃകയാണ് ഇത് ഇനി നേത്രബന്ധം അത്ര തന്നെ സാധ്യമല്ലാത്ത മറ്റു ചില ഇരിപ്പിട ക്രമീകരണങ്ങൾ ഇതുമായി താരതമ്യം ചെയ്യാം ഇവിടെയുള്ള ചിത്രത്തിൽ രംഗസജ്ജീകരണം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു സുഖപ്രദമായ ഇരിപ്പിടങ്ങളും ഉയരം കുറഞ്ഞ മേശയും സദസുമായുള്ള നേത്രബന്ധം സുഗമമാക്കുന്നു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ ഇരിപ്പിടങ്ങൾ നേർരേഖയിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ അവർ തമ്മിൽ നേത്രബന്ധം സാധ്യമല്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പങ്കെടുക്കുന്നവരുടെ ഭാഗഭാഗിത്വവും താല്പര്യവും കുറയുന്നു നാം പരിചയപ്പെട്ട രണ്ട് ചിത്രങ്ങളും പൊതുചർച്ചകളിൽ നേത്രബന്ധത്തിനുള്ള പ്രാധാന്യത്തെ കുറിക്കുന്നു എല്ലാത്തരം അഭിമുഖങ്ങളിലും നേത്രബന്ധത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് നേത്രബന്ധത്തിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും ഒരു ഉദ്യോഗാർഥിയെ തിരഞ്ഞെടുക്കപ്പെടാനും തഴയാനും ഇടയാക്കും നമുക്ക് ഒരു പ്രത്യേക കാര്യത്തോടുള്ള ആഭിമുഖ്യവും ആത്മവിശ്വാസവും അഭിമുഖത്തിന് വേണ്ടിയുള്ള കുറ്റമറ്റ തയ്യാറെടുപ്പും നമ്മുടെ കണ്ണുകളുടെ ഭാഷയിലൂടെ മറ്റുള്ളവർക് മനസിലാക്കാൻ കഴിയും അഭിമുഖങ്ങളിൽ ഉദ്യോഗാർത്ഥിയുടെ നേത്രബന്ധം ആ വ്യക്തിയുടെ ആഭിമുഖ്യവും കുറ്റമറ്റ തയ്യാറെടുപ്പും പ്രദര്ശിപ്പിക്കുന്നതോടൊപ്പം ഉദ്യോഗദാതാവിന്റെ സമയത്തെയും ഉർജ്ജത്തെയും അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്ന ധാരണയുണ്ടാക്കുവാനും സഹായിക്കുന്നു ഉദ്യോഗാർത്ഥിയുടെ മറുപടികൾക്കൊപ്പം മികച്ച നേത്രബന്ധത്തിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് അഭിമുഖത്തിനിടയിൽ ഉദ്യോഗാർത്ഥി തന്റെ ചെരുപ്പിലേക്കോ മേശയിലേക്കോ നോട്ടമുറപ്പിച്ചാൽ അത് ആത്മവിശ്വാസക്കുറവായും സങ്കോചമായും വ്യാഖ്യാനിക്കപ്പെടും എന്നാൽ ആത്മവിശ്വാസത്തോടെ നേത്രബന്ധം പുലർത്തുന്ന ഉദ്യോഗാർത്ഥി നല്ല തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നതെന്ന ധാരണ ഉളവാക്കും അഭിമുഖം നടത്തുന്നവരിലെ ആരുമായി നേത്രബന്ധം പുലർത്തണം എന്നതിനെ കുറിച് ഉദ്യോഗാർത്ഥിക്ക് ആശയ കുഴപ്പം ഉണ്ടാകാം ഒന്നിലധികം പേരുണ്ട് എങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെ മാത്രം ആണോ അതോ മുഴുവൻ അംഗങ്ങളെയും അഭിസംബോധന ചെയ്യണോ എന്ന ആശങ്ക സ്വാഭാവികം ആണ് ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചു മറുപടി പറയുമ്പോൾ എല്ലാവരുമായും നേത്രബന്ധം പുലർത്തുന്നതാകും അഭികാമ്യം അഭിമുഖം നടത്തുന്നവരുമായുള്ള മികച്ച നേത്രബന്ധം ഉദ്യോഗാർത്ഥി യുടെ സത്യസന്ധതയെയും താല്പര്യത്തേയും ഉദ്ദേശ്യലക്ഷ്യങ്ങളെയും പ്രകടമാക്കുന്നു നേത്രബന്ധത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അഭിമുഖം നടത്തുന്നവരുമായി നല്ല നേത്രബന്ധം പുലർത്തുകയും പെട്ടെന്ന് ഒരു പ്രത്യേക ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ ഭാഗമായി നിങ്ങൾ കണ്ണ് ചിമ്മുകയോ നേത്രബന്ധം പുലർത്തുന്നത് ഒഴിവാക്കുകയോ ചെയ്താൽ അത് നിങ്ങളെക്കുറിച്ച് നിഷേധാത്മകമായ ധാരണ സൃഷ്ടിക്കും ഉദ്യോഗാർത്ഥിയുടെ പെരുമാറ്റത്തിന്റെ ആകെത്തുകയായ് വിലയിരുത്തപ്പെട്ടില്ലെങ്കിലും തീർച്ചയായും അയാൾ കണ്ണ് ചിമ്മുകയോ നോട്ടം ഒഴിവാക്കുകയോ ചെയ്ത ആ പ്രത്യേക സന്ദര്ഭത്തെക്കുറിച്ചു മതിപ്പ് കുറയും ചില വ്യക്തികളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം നമുക്ക് ദർശിയ്ക്കാം ഇതവരുടെ തയ്യാറെടുപ്പുമായ് ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്യോഗാർത്ഥി നന്നായി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്ന മറുപടി ശരിയാണെന്ന് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കണ്ണുകളിൽ തിളക്കവും ആത്മവിശ്വാസവും ഉണ്ടാകും ഉദ്യോഗാർത്ഥിയുടെ ഓജസ്സും കണ്ണുകളിലെ ആത്മവിശ്വാസത്തിന്റെ തിളക്കവും അഭിമുഖം നടത്തുന്നവരിൽ മതിപ്പുളവാക്കുകയും നൽകുന്ന മറുപടി ഉദ്യോഗാർത്ഥിയുടെ ഇഷ്ട മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്നും അഭിമാനത്തോട് കൂടിയാണ് അറിയാവുന്ന കാര്യങ്ങൾ അവരുമായി പങ്ക് വയ്ക്കുന്നതെന്നും അവർ ധരിക്കാൻ ഇടവരും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും പ്രവൃത്തിപരിചയത്തെക്കുറിച്ചും അക്കാദമിക മികവിനെക്കുറിച്ചും വിവരിക്കുമ്പോൾ കണ്ണുകളിൽ തിളക്കവും മുഖത്ത് ആത്മവിശ്വാസവും പ്രകടമാകേണ്ടത് അനിവാര്യമാണ് ഉദ്യോഗദാതാവിന് നിങ്ങൾ ഏറ്റവും മികച്ച ഉദ്യോഗാർഥിയാണ് എന്ന ധാരണയുളവാക്കാൻ ഇത് സഹായിക്കും നേത്രബന്ധം പുലർത്തുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയുമായ് ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുപ്പം മുതൽ നാം കേട്ട് വന്നിരിക്കുന്നത് കണ്ണിൽ നോക്കാതെ മറ്റെവിടെയെങ്കിലും നോക്കി സംസാരിക്കുന്നവരെ വിശ്വസിക്കാൻ സാധ്യമല്ല എന്നാണ് വ്യക്തിബന്ധങ്ങളിൽ ശരീരഭാഷയുടെ പ്രാധാന്യമെന്തെന്ന് നാം നേരത്തെ പഠിച്ചതിൽ നിന്ന് നേത്രബന്ധം എല്ലായ്പോഴും വിശ്വസ്തതയുമായ് ബന്ധപ്പെട്ടിരിക്കുന്നതായി മനസിലാക്കാം ചില രാജ്യങ്ങളിൽ ഉദാഹരണത്തിന് ജപ്പാനിൽ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവർ ഇപ്പോഴും നേരിട്ടുള്ള നേത്രബന്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ചിലപ്പോഴെങ്കിലും അപമര്യാദയായി തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും എന്നാൽ അമേരിക്കൻ ഐക്യ നാടുകളിൽ നേരെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അഭിലഷണീയമാണ് ഇത്തരത്തിലുള്ള സാംസ്കാരികമായ വ്യത്യാസങ്ങളെക്കുറിച്ചു ബോധവാന്മാരാകുന്നതും അവയെ ഉള്കൊള്ളുന്നതും നല്ലത് തന്നെ എന്നാൽ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എല്ലായ്പോഴും ആത്മവിശ്വാസത്തിന്റെയും തുറന്ന മനസ്ഥിതിയുടെയും പ്രതീകമായി വിലയിരുത്തപ്പെടുന്നു ഒരു വ്യക്തിയുമായുള്ള സംഭാഷണത്തിനിടയിൽ തുടർച്ചയായ നേത്രബന്ധം പുലർത്തുന്നത് നല്ലത് തന്നെ ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക കാര്യത്തെകുറിച്ചു ആലോചിക്കുന്നതിനോ ചിന്തകളെ ക്രോഡീകരിക്കുന്നതിനോ വേണ്ടി നോട്ടത്തിന്റെ ദിശ കുറച്ചു സമയത്തേക്ക് മാറ്റേണ്ടി വരും മേല്പറഞ്ഞതു പോലെ അല്പസയത്തേക്ക് നോട്ടത്തിന്റെ ദിശ മാറ്റുന്നതിൽ തെറ്റില്ല ഏതെങ്കിലും വിഷയം ഒരു സദസിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലും കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നത് ഉചിതമാണ് എന്തെങ്കിലും വിഷയം അവതരിപ്പിക്കുമ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയാകർഷിക്കാൻ നിങ്ങൾക്കൊരു പേനയോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രോതാവിന്റെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ദിക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക് ഒരു പേനയോ മറ്റേതെങ്കിലും സാമഗ്രിയോ ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടു വരാൻ സാധിക്കും ശ്രോതാവിന്റെ കണ്ണുകളുടെ ശ്രദ്ധ സാവധാനം നിങ്ങളിലേക്ക് തിരിക്കുന്നതിനൊപ്പം നിങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ആ വ്യക്തിയുടെ ശ്രദ്ധ പൂർണമായി കൊണ്ടു വരാൻ കഴിയും ഒരു ബോർഡോ സ്ക്രീനോ ഉപയോഗിച്ചുള്ള അവതരണത്തിനൊപ്പം മാത്രമല്ല ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള അവതരണത്തിനൊപ്പവും ഈ രീതി ഉപയോഗിക്കാം LNP യിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ മേല്പറഞ്ഞ മാർഗം ഉപയോഗിക്കുന്നത് വ്യക്തമാക്കിയിരിക്കുന്നു ആദ്യത്തെ ചിത്രത്തിൽ സംസാരിക്കുന്നയാൾ ശ്രോതാവിന്റെ ശ്രദ്ധ പേനയിലേക്ക് ആകർഷിക്കുകയും രണ്ടാമത്തെ ചിത്രത്തിൽ പേന ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പുസ്തകത്തിലെ ഭാഗത്തേക്ക് കൊണ്ട് വരുന്നു ശ്രോതാവിന്റെ നേത്രങ്ങളുടെ ശ്രദ്ധ നിയന്ത്രിക്കുന്നതിലൂടെ അയാളുടെ മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും പൊതുപ്രഭാഷണങ്ങൾക്കിടയിലും മറ്റു സമാനസാഹചര്യങ്ങളിലും ഈ രീതി ഉപയോഗപ്പെടുത്താം വിവിധ വിഷയങ്ങൾ ഒരു സദസിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും സമ്മേളനങ്ങളിലും മറ്റും പങ്കെടുക്കുമ്പോഴും അവതരിപ്പിക്കുന്നയാളോട് ചോദ്യങ്ങൾ ഉയരാം ഈ ചോദ്യങ്ങൾക് ഉത്തരം നൽകുമ്പോൾ സദസുമായി മികച്ച നേത്രബന്ധം പുലർത്തുന്നത് അവതരണത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാനും സദസിന്റെ ശ്രദ്ധ പിടിച്ചു നിർത്താനും സഹായിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രോതാക്കളുടെ പ്രതികരണം അറിയാനും അവരുടെ ചോദ്യങ്ങൾക് മറുപടി പറയുവാനും താല്പര്യമുണ്ടെന്ന ധാരണയുളവാക്കാൻ പാകത്തിൽ ശരീരഭാഷ ക്രമപ്പെടുത്തണം ഇവിട തന്നിരിക്കുന്ന വീഡിയോ ശകലത്തിൽ ശരീരഭാഷയും നേത്രബന്ധവും എങ്ങനെ ശരിയായ രീതിയിൽ ശ്രോതാക്കളുടെ ഭാഗഭാഗിത്വം വർധിപ്പിക്കാൻ ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നു വിഡിയോയിൽ കാണുന്ന വ്യക്തി സദസ്യരുമായി ഏറ്റവും മികച്ച നേത്രബന്ധം പുലർത്തുന്നതിൽ ലോകപ്രശസ്തനാണ് അദ്ദേഹം സദസ്യരോട് സംസാരിക്കുമ്പോൾ അത് അവർക്ക് ഹസ്തദാനം നൽകുന്നത് പോലെ ഹൃദ്യമായ അനുഭവമായി മാറുന്നു മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ അവരിൽ മാത്രമാണ് എന്ന തോന്നലുളവാക്കുന്നു എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച അവതരണ ശൈലിയും സവിശേഷമായ നേത്രബന്ധവും ആണ് ഇത് സാധ്യമാക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ കോൺഗ്രസിൽ സംസാരിക്കുമ്പോഴുള്ള അദേഹത്തിന്റെ നേത്രബന്ധത്തെകുറിച്ചാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉടനീളം ഏകദേശം 90 95 സമയം അമേരിക്കയിലെ ഒരു ചെറിയ സ്റ്റേറ്റിന്റെ ഗവർണർ ആയ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത് ഒരു സദസിന് മുന്നിൽ ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരുമായി തുടർച്ചയായി നേത്രബന്ധം പുലർത്തുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നോക്കി ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്നവർക്ക് തങ്ങൾക്കു സംസാരിക്കാനുള്ള ഊഴം വരുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല ബിൽ ക്ലിന്റൺ സദസുമായ് നേത്രബന്ധം മുറിക്കുന്നതിലും സവിശേഷതയുണ്ട് നേത്രബന്ധം മുറിക്കുന്നതിനു മുന്നോടിയായി അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച സ്ത്രീയുടെ അടുത്ത് നിന്ന് പതുക്കെ പിന്നോട്ട് നടക്കുകയും തുടർന്ന് സാവധാനം നോട്ടത്തിന്റെ ദിശ മാറ്റുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നേത്രബന്ധം പെട്ടെന്ന് അവസാനിച്ചതായി തോന്നുകയില്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് മനസിലാക്കാം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം അവസാനിപ്പിക്കാനും നേത്രബന്ധം പതുക്കെ മുറിക്കുവാനും പോവുകയാണെന്ന് അദ്ദേഹം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക പത്തു വർഷം മുൻപ് നന്നായി അധ്വാനിച്ചാൽ കിട്ടുമായിരുന്ന പണത്തേക്കാൾ വളരെ കുറച്ചു മാത്രമാണ് ഈ കാലഘട്ടത്തിൽ അധ്വാനിക്കുമ്പോൾ പലർക്കും ലഭിക്കുന്നത് പരാജയപ്പെട്ട സാമ്പത്തികതത്വങ്ങൾ ആണ് ഇതിന്റെ കാരണം അടുത്ത പടി നിങ്ങൾ ഏത് സാമ്പത്തിക തത്വത്തെ ആശ്രയിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് എന്താണ് നാം ചെയേണ്ടത് എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്നത് ഉചിതമായ തീരുമാനമായിരിക്കും എന്നാണ് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ നടന്നു നീങ്ങുന്നു എന്നിട്ട് അദ്ദേഹം തുടരുന്നു തൊഴിലവസരങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമായി അമേരിക്കൻ പൌരന്മാരുടെ നിക്ഷേപം ഒരുമിച്ച് കൊണ്ടു വരണം ഇത്രയും സമയം നാം ചർച്ച ചെയ്തത് മികച്ച നേത്രബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്നാൽ നേത്രബന്ധത്തിന് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ചിലപ്പോഴെങ്കിലും സംസാരിക്കുന്നയാൾക്ക് അത് അസുഖകരമായിത്തീരും തുടർച്ചയായി നേത്രബന്ധം പുലർത്തുക എന്ന നിഷ്കർഷ സംസാരിക്കുന്നയാൾക്ക് കൂടുതൽ സമ്മർദമേകും പ്രത്യേകിച്ചും അഭിമുഖം ചർച്ചകൾ അവതരണം എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ ഈ സമ്മർദം ഇവയിൽ പങ്കെടുക്കുന്നവരെ അലോസരപ്പെടുത്തുകയും നേത്രബന്ധം പുലർത്തണമെന്ന ബോധ്യം ഉണ്ടായിട്ടും പലപ്പോഴും അത് സാധ്യമാകാതെ വരുകയും ചെയുന്നു ഇത് വികലമായ ശാരീരിക ചലനങ്ങളിലേക് നയിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്ക മുൻകരുതൽ എടുക്കണം എന്ന് നോക്കാം ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ സാധാരണയായി ആളുകൾ ചെയ്യാറുള്ളത് മേശയിൽ ഇരിക്കുന്ന പേപ്പർ വെയിറ്റിലോ മറ്റൊ ദൃഷ്ടി ഉറപ്പിക്കുക എന്നതാണ് അതിന്റെ ഫലമായി അഭിമുഖം നടത്തുന്നവരെ സംബോധന ചെയ്യുന്നതിന് പകരം പേപ്പർവെയ്റ്റിനെ സംബോധന ചെയ്തു സംസാരിക്കുന്നു വിലക്ഷണമായ നേത്രബന്ധവും അനാവശ്യമായി ദൈർഘ്യമേറിയ നേത്രബന്ധവും ഒരു പോലെ കുഴപ്പം പിടിച്ചതാണ് അഭിമുഖം നടത്തുന്നവരുടെ കണ്ണുകളിലേക്ക് ദീർഘനേരം നോക്കി സംസാരിക്കുന്നത് അഭിലഷണീയമല്ല ഈ രണ്ട് സാഹചര്യങ്ങളും ഒഴിവാക്കാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം ഡെയ്ൽ കാർനിജ് ആണ് ഇത് ആദ്യമായി മുന്നോട്ടു വച്ചത് ഇത് വളരെ ലളിതം ആണ് നിങ്ങൾ അഭിമുഖം നടത്തുന്നവരുടെ കണ്ണിലേക്കു നോക്കി അവയുടെ നിറം മനസ്സിൽ രേഖപ്പെടുത്തുക നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ നേത്രബന്ധം നിങ്ങൾക് നേരിട്ടുള്ള നേത്രബന്ധം പുലർത്താൻ ബുദ്ദിമുട്ട് ഇല്ല എന്ന സന്ദേശം നൽകുന്നു ശരിയായ നേത്രബന്ധം പുലർത്താൻ ബുദ്ധിമുട്ട് ഉള്ളവർക്കും ഈ രീതി ഉപയോഗിക്കാം വളരെ വലിയ സദസുമായ് നേത്രബന്ധം പുലർത്താൻ ബുദ്ധിമുട്ട് തോന്നാം എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുക എന്നത് പ്രായോഗികം അല്ല അതിനു മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം മുൻ നിരയിൽ ഇരിക്കുന്നവരുടെ തലയ്ക്കു മുകളിൽ നോക്കി സംസാരിക്കുക എന്നതാണ് ഒരു മാർഗം ഉദാഹരണത്തിന് മുമ്പിൽ ഇരിക്കുന്നവരുടെ കണ്ണുകളിൽ നോക്കുന്നതിന് പകരം അവരുടെ തലയ്ക്കു കുറച്ചു മുകളിലായി നോക്കണം അപ്പോൾ മുമ്പിൽ ഇരിക്കുന്നവരും അവർക്ക് പിന്നിൽ ഇരിക്കുന്നവരും അവരെ നോക്കിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ധരിക്കും മറ്റൊരു മാർഗം സദസ്സ് Z രൂപത്തിലാണ് എന്ന് സങ്കല്പിക്കുക അപ്പോൾ Z ന്റെ പല ഭാഗങ്ങളിൽ ആളുകൾ ഇരിക്കുന്നതായി തോന്നും അങ്ങനെ എല്ലാ ഭാഗത്തും ഇരിക്കുന്നവരോട് സംസാരിക്കുന്നതായും അനുഭവപ്പെടും നിങ്ങൾ കണ്ണുകൾ കൊണ്ട് Z വരയ്കുമ്പോൾ ശ്രദ്ദിക്കേണ്ടതു എല്ലാ ഭാഗത്തും ഇരിക്കുന്ന സദസ്യരെ ഒന്നോ രണ്ടോ തവണ നോക്കി സംസാരിക്കുക എന്നതാണ് അവരുമായി മികച്ച നേത്രബന്ധം പുലർത്തുന്നതിനൊപ്പം മുഖാമുഖം സംസാരിക്കാനും ശ്രദ്ധിക്കണം ശരീരഭാഷയെക്കുറിച്ചു നാം കൂടുതൽ പഠിക്കുമ്പോൾ മുഖാമുഖം സംസാരിക്കുന്നതിനൊപ്പം ഹൃദ്യമായ പുഞ്ചിരിയുടെയും തലയാട്ടലിന്റെയും അകമ്പടിയാകാം എന്ന് മനസിലാക്കുന്നു നിങ്ങൾ ഇടതു വശത്തേക്കു നീങ്ങിയാണ് നില്കുന്നതെങ്കിൽ സദസിന്റെ ഓരോ കോണിലും ഒരു വ്യക്തിയെയോ ബിന്ദുവിനെയോ സങ്കല്പിക്കുക എല്ലാവരുമായും വ്യത്യസ്ത രീതിയിലുള്ള നേത്രബന്ധം പുലർത്തണം അപ്പോൾ സദസ്യർക് നിങ്ങൾ അവരെയെല്ലാം സംബോധന ചെയ്യുന്നതായി തോന്നും ഒരു വലിയ സദസ്സിലെ എല്ലാവരുമായും നേത്രബന്ധം പുലർത്തുക അസാധ്യമാണെങ്കിലും നിങ്ങൾ കഴിയുന്നത്ര നേത്രബന്ധം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന തോന്നൽ അവരിൽ മതിപ്പുളവാക്കും അപര്യാപ്തമായ നേത്രബന്ധം അസുഖകരമായ സാഹചര്യങ്ങൾക്ക് വഴി വയ്ക്കുന്നു ചില ടെലിവിഷൻ പരിപാടികളിൽ നേത്രബന്ധത്തിന്റെ പ്രാധന്യത്തെ അടിസ്ഥാനമാക്കി അത്യന്തം രസകരമായ രംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് 1994 മുതൽ 2004 വരെ എൻ ബി സി ടെലിവിഷനിൽ ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇതിൽ ആറു സുഹൃത്തുക്കൾ പല സന്ദർഭങ്ങളിൽ ദീർഘമായ നേത്രബന്ധം പുലർത്തുകയും ചിലപ്പോൾ പാടെ ഒഴിവാക്കുകയും ചെയ്യുന്നു നോട്ടങ്ങളെയും മുഖഭാവങ്ങളെയുമെല്ലാം പല വിഭാഗങ്ങളായി തരംതിരിക്കാം മുഖം കൊണ്ടുള്ള ക്ഷമാപണം അയാളുടെ കണ്ണിൽ നോക്കി എനിക്കറിയാം എനിയ്ക്കതു പിടികിട്ടും എനിക്ക് അറിയില്ല ഞാൻ പറയുന്നു എനിക്കത് സാധിക്കും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും നമ്മുടെ അവസ്ഥ അത്യന്തം ദയനീയമാണ് നിങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ അതീവ ദുഖിതരാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ അതീവ ദുഖിതരാണ് എന്നറിയിക്കുന്നു സംവേദനാത്മക ചർച്ചകളിലും മറ്റും നല്ല നേത്രബന്ധം പ്രധാനമാണെന്നത് പോലെ വിവിധ തരം നോട്ടങ്ങളുടെ അർത്ഥവും മനസിലാക്കേണ്ടതുണ്ട് വശങ്ങളിലൂടെയുള്ള നോട്ടവും അത് എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നതും നോക്കാം അത് ശത്രുതാമനോഭാവമോ അനിശ്ചിതത്വമോ സംശയമോ പ്രതിഫലിപ്പിക്കുന്നു അതേ സമയം തന്നെ മറ്റേ വ്യക്തിയിൽ നിങ്ങൾ ആകൃഷ്ടയാണ്തല്പരയാണ് എന്ന സന്ദേശവും നൽകുന്നു മേല്പറഞ്ഞതിൽ ഏത് വികാരമാണ് മുന്നിട്ടു നില്കുന്നത് എന്നറിയാൻ ആ വ്യക്തിയുടെ ശരീരചലനങ്ങൾ ശ്രദ്ധിക്കുക വിദ്വേഷമോ സംശയമോ ആണ് നോട്ടത്തിൽ സ്ഫുരിക്കുന്നതെങ്കിൽ ആ വ്യക്തി തല പെട്ടെന്ന് വെട്ടിത്തിരിക്കുകയും പുരികങ്ങൾ വളയുകയും നെറ്റിത്തടത്തിൽ വരകൾ പ്രത്യക്ഷമാവുകയും വായുടെ അഗ്രം താഴേക്കു വളയുകയും ചെയ്യും ഇനി മറ്റേ വ്യക്തിയിൽ അതിയായ താല്പര്യം ഉള്ളത് കൊണ്ടാണെങ്കിൽ കഴുത്തു കാണാവുന്ന വിധത്തിൽ തല ചരിച്ചു പുരികങ്ങൾ ഉയർത്തി ഒരു ചെറുപുഞ്ചിരിയോടെയാകും വീക്ഷിക്കുക പ്രേമാഭ്യർത്ഥന നടത്തുന്നയാളും ഇതേ രീതി പിന്തുടരുന്നു ഒരു വ്യക്തിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസിലാക്കുന്നതിനായ് അയാളുടെ ശരീര ചലനങ്ങൾ കൂടെ ശ്രദ്ധിക്കണം നാം നേരത്തെ പഠിച്ചത് പോലെ വാചികേതരമായ സന്ദേശങ്ങൾക്ക് മറ്റു വാക്കുകൾക്ക് എന്ന പോലെ അർത്ഥതലങ്ങൾ ഉണ്ട് ശരീര ചലനങ്ങളുടെ ആകെ തുക സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഒരു വാചകത്തിൽ എഴുതാൻ പാകത്തിൽ അവയുടെ അർത്ഥം ഹൃദിസ്ഥമാകും ചിലർ ബോധപൂർവ്വമല്ലാതെ ദീർഘനേരം കണ്ണ് ചിമ്മുന്നു ഒരാൾ അയാളുടെ ചിന്തകളിൽ മുഴുകി നില്കുമ്പോഴോ താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ശക്തമായി ആഗ്രഹിക്കുമ്പോഴോ മറ്റുള്ളവരെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോഴോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദീർഘനേരം നീണ്ടു നിക്കുന്ന കണ്ണ് ചിമ്മൽ വ്യക്തമാക്കുന്നത് ആ വ്യക്തി തന്റെ ചുറ്റും ഇരിക്കുന്ന വ്യക്തികളിൽ ഒട്ടും തന്നെ തല്പരയല്ലെന്നും പറയുന്ന കാര്യത്തിൽ തീരെ താല്പര്യം ഇല്ലെന്നുമാണ് പ്രസ്തുത വ്യക്തിയുടെ കണ്ണുകൾ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ നിമിഷങ്ങൾ അടഞ്ഞിരിക്കും കാരണം അയാൾ നിങ്ങളെ കാഴ്ചയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു അതൊരു നിഷേധത്മ്ക ചലനമായി വിലയിരുത്താം ഇനി നമുക്ക് കണ്ണുകൾ ചിമ്മുന്നതിന്റെയും ചുറ്റും കണ്ണോടിക്കുന്നതിന്റെയും നോട്ടം തന്നെ ഒഴിവാക്കുന്നതിന്റെയും മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം ഒരു മുറിയിലേക്കു ഒരു വ്യക്തി പ്രവേശിക്കുകയും ചുറ്റും അതിവേഗത്തിൽ കണ്ണോടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസിലാക്കാൻ ശ്രമിക്കുകയാണ് അത് ചിലപ്പോൾ അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാകാം ആ മുറിയിലിരിക്കുന്ന എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനാകാം അങ്ങനെ നോക്കുന്നത് ചിലപ്പോൾ അമിതമായ സങ്കോചം മൂലമായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അയാളുടെ മനസ് ആ സന്ദർഭത്തിൽ നിന്ന് രക്ഷപെടാൻ അതിയായി ആഗ്രഹിക്കുന്നു കണ്ണുകൾ അതിവേഗം ചുറ്റും ചലിപ്പിക്കുന്നതോടൊപ്പം ആ വ്യക്തിയുടെ സങ്കോചം വ്യക്തമാക്കുന്ന ശാരീരിക ചലനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് അയാളുടെ അരക്ഷിതാവസ്ഥയെ വ്യക്തമാക്കുന്നു കണ്ണുകൾ ചുറ്റും ഓടിക്കുന്നത് നുണ പറയുന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതിനെ സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് നുണ പറയുന്നതിൽ വിദഗ്ധരായവർ ദീർഘനേരം കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശീലിച്ചവർ ആയിരിക്കും അനാവശ്യമായി ദീർഘനേരം കണ്ണുകളിൽ നോക്കുന്നതും കണ്ണുകൾ അതിവേഗം ചുറ്റുപാടും ഓടിക്കുന്നതും നുണ പറയുന്നതിന്റെ ലക്ഷണമാണ് ഒരു വ്യക്തി തുടർച്ചയായി കണ്ണുകൾ അടച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അയാൾ മനസിലുള്ളത് തുറന്നു സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നർത്ഥം ഒരാൾ പൂർണമായും നോട്ടം ഒഴിവാക്കുന്നത് വളരെ നിഷേധാത്മകമായ പ്രവണതയാണ് ആ വ്യക്തിക്ക് സങ്കോചം ഉള്ളത് കൊണ്ടോ മറ്റേ വ്യക്തിയെ കാഴ്ചയിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ വിദ്വേഷമോ ഔന്നത്യമോ പ്രദർശിപ്പിക്കുന്നതിനോ ആണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെക്കാൾ പദവിയിൽ താഴെ ഉള്ള ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കുമ്പോഴോ ആ സാഹചര്യത്തിൽ മനസിലുള്ള ആശങ്ക കുറയ്ക്കുവാനോ വേണ്ടിയാകാം അങ്ങനെ ചെയുന്നത് പല തരത്തിലുള്ള നേത്രബന്ധങ്ങളെക്കുറിച്ചു നാം പഠിച്ചു മികച്ച നേത്രബന്ധം പുലർത്തുന്നത് അനിവാര്യമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു നിഷേധാത്മകമായ നേത്രബന്ധം തത്തുല്യമായ പ്രതികരണങ്ങൾ ആയിരിക്കും കേൾവികാരിൽ ഉണ്ടാക്കുക നേത്രബന്ധത്തോടൊപ്പമുള്ള ശരീര ചലനങ്ങൾ കൂടെ ശ്രദ്ദ്ധിക്കേണ്ടതുണ്ട് കണ്ണുകളുടെ ഭാഷ മറ്റു ശരീര ഭാഷകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം അതു വഴി നമുക്ക് നിഗമനങ്ങളിൽ എത്താം ഒരാൾ സംസാരിക്കുന്നതിന്റെ വേഗതയിലും അതു മറ്റുള്ളവർ കേട്ട് മനസ്സിലാക്കുന്നതിന്റെ വേഗതയിലും വ്യത്യാസമുണ്ട് ശരാശരി വിദ്യാഭ്യാസം സിദ്ധിച്ച സാധാരണ മനുഷ്യന് ഒരു മിനുട്ടിൽ 650 മുതൽ 700 വരെ വാക്കുകൾ കേട്ട് മനസിലാക്കാൻ സാധിക്കും എന്നാൽ സാധാരണയായി സംസാരിക്കുന്നയാൾക്ക് 150 വാക്കുകളിൽ കൂടുതൽ സംസാരിക്കാൻ സാധ്യമല്ല എന്നാൽ നാം ഇതിനേക്കാൾ കൂടുതൽ സംസാരിക്കുകയും അങ്ങനെ സംസാരത്തിന്റെ വേഗം കൂടുകയും കേള്കുന്നവർക് മനസിലാകാതെ വരികയും ചെയുന്നു ഒരു ശരാശരി കേൾവിക്കാരന്റെ കേൾക്കുന്ന മനസിലാക്കാൻ എടുക്കുന്ന സമയം മൂന്നു ഭാഗമായി തിരിക്കാം അവർ കേൾക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താൻ ഈ സമയം ഉപയോഗിക്കുന്നു അവർ സംസാരിക്കുന്നയാളുടെ ശരീര ചലനങ്ങളും കണ്ണുകളും ശ്രദ്ധിക്കുകയും പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നു അക്ഷമരായ സദസ്യരിൽ ചിലർ ചോദ്യങ്ങൾ ചോദിക്കുകയും അവതാരകയുടെഅവതാരകന്റെ വാചികേതര ആശയവിനിമയം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സദസ്യർ സംസാരിക്കുന്നയാളെ നോക്കാതെ മറ്റെവിടെയെങ്കിലും നോക്കിയിരുന്നാൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നും അസ്വീകാര്യമാണെന്നും വിലയിരുത്താം എന്നാൽ സംസാരിക്കുന്നയാളെ നോക്കി ഇരുന്നാൽ പറയുന്നതിൽ താല്പര്യം ഉണ്ടെന്നും അതിനെ അംഗീകരിക്കുന്നു എന്നും വ്യക്തം പ്രഭാഷക സദസ്യരെത്തന്നെ നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആത്മവിശ്വാസത്തെയും തുറന്ന മനസ്ഥിതിയെയും ആണ് അത് കാണിക്കുന്നത് പ്രഭാഷക സദസ്യരെ നേരിട്ട് നോക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മവിശ്വാസക്കുറവായും ചോദ്യങ്ങളെ നേരിടാനുള്ള കെല്പില്ലായ്മയായും എന്തെങ്കിലും പ്രത്യേക വികാരം ഒളിച്ചു വയ്ക്കാനുള്ള മാർഗ്ഗമായും വിലയിരുത്താം ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ തങ്ങളേക്കാൾ താഴ്ന്ന പദവിയിൽ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരെ സൂക്ഷ്മമായി നോക്കുകയും അഭിമുഖീകരിക്കുകയും അവർക്ക് വേണ്ട നിർദേശങ്ങൾ നൽകുകയും ചെയുന്നു നേത്രബന്ധവും വാചികേതര വിനിമയങ്ങളും ഒരുമിച്ച് വിലയിരുത്തേണ്ടതാണ് കോഴ്സിന്റെ കഴിഞ്ഞ ഭാഗത്തു ന്യൂറോ ലിംഗയ്സ്റ്റിക് പ്രോഗ്രാമിങ് എന്തെന്ന് നാം പഠിച്ചു റിച്ചാർഡ് ബാൻഡ്ലെറും നോക്കാം ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പ്രോഗ്രാമിങ്ങിന്റെ കണ്ടെത്തലുകൾ ശരി വയ്ക്കുന്നതാണ് ഈ രേഖാചിത്രം വലതു വശത്തേക്കും ഇടതു വശത്തേക്കും ഉള്ള നോട്ടങ്ങൾ വ്യത്യസ്തമായ ചിന്താരീതികളെയാണ് കാണിക്കുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ഒരു ശാസ്ത്രമെന്ന നിലയിൽ സ്ഥാപിതമായത് അടുത്ത കാലത്താണെങ്കിലും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ വില്യം ജയിംസിന്റെ പ്രിൻസിപ്പൽസ് ഓഫ് സൈക്കോളജി പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇതിലാണ് വില്യം ജോൺസ് കണ്ണുകളുടെ ചലനങ്ങളെ ചിന്താധാരയുമായി ബന്ധപ്പെടുത്തി മനഃശാസ്ത്ര തത്വങ്ങളിൽ അദ്ദേഹം പറയുന്നത് മനസ്സിൽ ഏതെങ്കിലും ഒരു ചിത്രം വരുമ്പോൾ അതോടൊപ്പം നേത്രഗോളങ്ങളിൽ സമ്മർദം ഒന്നിച്ചു കൂടൽ എന്നിവ കാണാം 1970 വരെ ഈ ആശയം സുഷുപ്തിയിലായിരുന്നു ഇനി നാം കാണാൻ പോകുന്ന വിഡിയോയിൽ നേത്രബന്ധത്തെ കുറിച്ച് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമ്മിങ്ന്റെ കണ്ടെത്തലുകളാണ് ഉള്ളത് നമ്മുടെ മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലാണ് വിവിധ കാര്യങ്ങൾഅറിവുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു കാര്യത്തെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി ഒരു പ്രത്ത്യേക ദിശയിലാണ് സഞ്ചരിക്കുക ഭൂരിപക്ഷം വ്യക്തികളോടും ഭൂതകാല സംഭവങ്ങളെകുറിച്ചോ ബാല്യകാല സ്മരണകളെ കുറിച്ചോ ചോദിക്കുമ്പോൾ അവരുടെ ദൃഷ്ടി മുകളിലേക്കോ ഇടത്തേക്കോ സഞ്ചരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള രേഖീയമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ സംഖ്യകളെക്കുറിച്ചാണെങ്കിൽ അവർ വലതു വശത്തേക്കായിരിക്കും കണ്ണോടിക്കുക വികാരനിർഭരമായ നിമിഷങ്ങളിൽ മിക്കവാറും വലതു വശത്തേക് കണ്ണോടിക്കുകയും സ്വയം സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ നിലത്തേക് നോക്കുകയും ഒരു മറുപടിക്ക് വേണ്ടി തിരയുമ്പോൾ ഇടതു വശത്തേക് നോക്കുകയും ചെയ്യുന്നു നിങ്ങൾക് ചിരപരിചിതമായ ഒരു ശബ്ദം കേട്ടാൽ ഉദാഹരണത്തിന് മുറ്റത്തു ഒരു പൂച്ചയോ മറ്റോ പെരുമാറുന്നതാണെങ്കിൽ നിങ്ങൾ ഇടതു വശത്തേക്ക് നോക്കുന്നു കാരണം നിങ്ങൾ അത് ഓർമയിൽ നിന്ന് ചികഞ്ഞെടുക്കുന്നതാണ് അഥവാ നിങ്ങൾക് തികച്ചും അപരിചിതമായ ശബ്ദമാണ് കേൾകുന്നതെങ്കിൽ നിങ്ങൾ വലതു വശത്തേക് നോക്കുകയും അതെന്തെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു നേത്രഭാഷയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിവിധ ശരീര ചലനങ്ങളുടെ അർത്ഥത്തെ കുറിച്ചും വ്യത്യസ്ത നോട്ടങ്ങളെക്കുറിച്ചും നാം വീണ്ടും ചർച്ച ചെയ്യും